എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കോസ്റ്റ് ബെനിഫിറ്റ് അനാല്യ്സിസിനെ കുറിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു നിർദ്ദേശങ്ങൾ വിലയിരുത്തുന്നതിനുള്ള വ്യത്യസ്ത മാർഗ്ഗങ്ങൾ നമ്മൾ കണ്ടു ഒന്ന് ഈ സാങ്കേതിക വിലയിരുത്തൽ തുടർന്ന് കോസ്റ്റ് ബെനിഫിറ്റ് അനാല്യ്സിസിസ് അല്ലെങ്കിൽ സാമ്പത്തിക വിലയിരുത്തൽ ഇപ്പോൾ വ്യക്തിഗത പ്രോജക്റ്റ് വിലയിരുത്തലിനായി അടുത്ത ഇനം നമുക്ക് എടുക്കാം അതിനാൽ ഈ വ്യക്തിഗത പ്രോജക്റ്റ് വിലയിരുത്തലിനായി ശേഷിക്കുന്ന മറ്റ് ഇനം ഇന്ന് ആദ്യം കാണും അത് ക്യാഷ്ഫ്ലോ ഫോര്കാസ്റിംഗ് ആണ് സി ബി അനാല്യ്സിസിസ് ഞാൻ ഇതിനകം നിങ്ങളോട് പറഞ്ഞതുപോലെ എല്ലാ സാധ്യതാ പഠനങ്ങളിലുമുള്ള എല്ലാ വിലയിരുത്തലുകളിലെയും ഏറ്റവും പ്രധാനപ്പെട്ട വിശകലനമാണ് സാമ്പത്തിക വിലയിരുത്തൽ അല്ലെങ്കിൽ സി ബി അനാല്യ്സിസിസ് ആണ് ഏറ്റവും പ്രധാനം അതിനാൽ സി ബി അനാല്യ്സിസിന്റെ വിശദമായ ഘട്ടങ്ങൾ നമ്മൾ കാണും തുടർന്ന് വിലയും ആനുകൂല്യങ്ങളും തിരിച്ചറിയാനും തരംതിരിക്കാനുമുള്ള ഘട്ടങ്ങളിലൊന്നും നമ്മൾ കാണും ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട വിവിധ തരം ചെലവുകളുടെയും ആനുകൂല്യങ്ങളുടെയും വിശദാംശങ്ങൾ കാണാം കോസ്റ്റ് ബെനിഫിറ്റ് അനാല്യ്സിസിസ് പോലെ ഒരു ക്യാഷ്ഫ്ലോ ഫോര്കാസ്റിംഗ് സൃഷ്ടിക്കുന്നതും വളരെ പ്രധാനമാണ് വികസന പദ്ധതിയിൽ ചെലവുകളും വരുമാനവും എപ്പോൾ നടക്കുമെന്ന് ഈ ക്യാഷ്ഫ്ലോ ഫോര്കാസ്റിംഗ് സൂചിപ്പിക്കുന്നു പദ്ധതിയുടെ വികസനത്തിന് ചിലവ് വരുമെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ പ്രോജക്റ്റ് വികസന സമയത്ത് ഉപകരണ സ്റ്റാഫ് പേയ്മെന്റുകൾ വാങ്ങുന്നത് പോലുള്ള ചില പണം നമ്മൾ ചെലവഴിക്കേണ്ടതുണ്ട് എന്നാൽ പദ്ധതിയിൽ നിന്ന് വരുമാനം ലഭിക്കുന്നതുവരെ ഈ ചെലവുകൾക്ക് കാത്തിരിക്കാനാവില്ല തുടക്കത്തിൽ കുറച്ച് പണം ചിലവഴിക്കേണ്ടതുണ്ട് സിസ്റ്റമോ ഉൽപ്പന്നമോ പുറത്തിറങ്ങുമ്പോൾ മാത്രമേ അത് വരുമാനം സൃഷ്ടിക്കുകയുള്ളൂ അത് ക്രമേണ ചെലവ് നികത്തും എന്നാൽ ഈ സമയം വരെ നമുക്ക് കുറച്ച് പണം ചിലവഴിക്കേണ്ടിവരുമെന്ന് റിസോർസിൽ നിന്ന് അല്ലെങ്കിൽ ബാങ്കുകളിൽ നിന്ന് വായ്പയെടുക്കുന്നതിലൂടെ ചിലവഴിക്കേണ്ടിവരും ചെലവിന്റെ സമയവും വരുമാനവും ചെലവ് കണക്കിലെടുക്കുമ്പോൾ നാം കണക്കിലെടുക്കേണ്ടതുണ്ടോ ആദ്യ വരുമാനം എപ്പോൾ പുറത്തുവരും അതിനാൽ ഉൽപ്പന്നത്തിന്റെ വിലയുടെയും വരുമാനത്തിൻറെയും സമയം കണക്കാക്കേണ്ടതുണ്ട് പ്രോജക്റ്റ് ആരംഭിക്കാൻ ആവശ്യമായ ഈ പ്രാരംഭ ഫണ്ടിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ടെന്ന് നമ്മൾക്കറിയാം ഫണ്ട് എവിടെ വരും അതിനാൽ ഫണ്ട് പ്രാരംഭ ഫണ്ട് ആവശ്യകതയാണോ പ്രാരംഭ ചെലവുകൾ ഓർഗനൈസേഷനുകളിൽ നിന്ന് സ്വന്തം റിസോർസിൽ നിന്നോ കടം വാങ്ങുന്നതിലൂടെയോ അല്ലെങ്കിൽ ബാങ്കുകളിൽ നിന്ന് വായ്പയെടുക്കുന്നതിലൂടെയോ ഫണ്ട് ചെയ്യാൻ കഴിയുമോ എന്ന് നാം അറിയേണ്ടതുണ്ട് അതിനാൽ ഒരു പ്രവചനം ആവശ്യമാണ് ഒരു സാധാരണ പ്രവചനം ആണ് ഇവിടെ കാണിക്കുന്നത് ഞാൻ ഇതിനകം നിങ്ങളോട് പറഞ്ഞതുപോലെ ഒരു പ്രോജക്റ്റിന്റെ വികസന സമയത്ത് നമ്മൾ കണ്ടു തുടക്കത്തിൽ നമുക്ക് കുറച്ച് പണം ചിലവഴിക്കേണ്ടതുണ്ട് ഇതാണ് പ്രാരംഭ ചെലവ് അതിനാൽ ഇവിടെ എന്ത് സംഭവിക്കും പ്രോജക്റ്റ് ഇപ്പോൾ ആരംഭിച്ചതിനാൽ വരുമാനമൊന്നുമില്ല അതിനാൽ ഒരു ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ വാങ്ങുക സൈറ്റ് തയ്യാറാക്കുക സ്റ്റാഫ് റിക്രൂട്ട്മെന്റ് തുടങ്ങിയവ പോലുള്ള ചില പ്രാരംഭ ചെലവുകൾ കുറച്ച് സമയത്തിന് ശേഷം നിങ്ങൾക്ക് കാണാം ക്രമേണ വരുമാനം വർദ്ധിക്കുകയും ഈ വർദ്ധനവ് വർദ്ധിക്കുകയും ചെയ്യും കുറച്ച് സമയം വരും ചില സമയങ്ങളിൽ ഈ വരുമാനം ഈ ചെലവിനെക്കാൾ കൂടുതലാണ് തുടർന്ന് ചെലവുകൾ നിറവേറ്റുക അത് ചെലവ് തുടക്കത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ നടത്തിയ ചെലവിന് തുല്യമായ വരുമാനത്തിന് തുല്യമായിരിക്കും അല്ലെങ്കിൽ പിന്നീട് ക്രമേണ വരുമാനം വർദ്ധിക്കുകയും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ചെലവാണ് വരുമാനം വരുമാനം 0 ആയി വരുമ്പോൾ അത് പരിപാലനം ചോദിക്കുകയും ചെയ്യും അതിനാൽ നിങ്ങൾ വീണ്ടും കുറച്ച് ചിലവുകൾ നടത്തണം ഇങ്ങനെയാണ് സാധാരണ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ ക്യാഷ്ഫ്ലോ കാണപെടുന്നത് അടിസ്ഥാനപരമായി ഇപ്പോൾ എനിക്ക് ഒരു ക്യാഷ്ഫ്ലോ പ്രവചനം നടത്തണം അതായത് ക്യാഷ്ഫ്ലോ എന്നതിൻറെ പ്രാധാന്യം എന്താണ് ചെലവ് എപ്പോൾ നടക്കുമെന്നും വരുമാനം എപ്പോൾ നടക്കുമെന്നും ഇത് സൂചിപ്പിക്കും ഇതുപയോഗിച്ച് ഈ കോസ്റ്റ് ബെനിഫിറ്റ് അനാല്യ്സിസിൻറെ വിശദമായ ഘട്ടങ്ങളിലേക്ക് പോകാം ഇത് വിജയകരമായ വികസന പദ്ധതിക്ക് വളരെ പ്രധാനമാണ് അതിനാൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാല്യ്സിസിൻറെ ഘട്ടങ്ങളാണിവ ആദ്യം നമ്മൾ നടപ്പാക്കേണ്ട പദ്ധതിയുമായി ബന്ധപ്പെട്ട ചെലവും ആനുകൂല്യങ്ങളും തിരിച്ചറിയണം തുടർന്ന് വിവിധ ചെലവുകളും ആനുകൂല്യങ്ങളും തരംതിരിക്കേണ്ടതുണ്ട് തുടർന്ന് ഒരു കോസ്റ്റ് ബെനിഫിറ്റ് വിലയിരുത്തൽ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് വിവിധ കോസ്റ്റ് ബെനിഫിറ്റ് മൂല്യനിർണ്ണയ ടെക്നിക്കുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം അത് നമുക്ക് നോക്കാം വിശകലനത്തിനായി ഈ കോസ്റ്റ് ബെനിഫിറ്റ് മൂല്യനിർണ്ണയ ടെക്നിക്കുകളുടെ ഫലങ്ങൾ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടതുണ്ട് തുടർന്ന് കോസ്റ്റ് ബെനിഫിറ്റ് മൂല്യനിർണ്ണയ ടെക്നിക്കുകളുടെ ഫലങ്ങൾ വിശകലനം ചെയ്ത ശേഷം ഉചിതമായ നടപടി കൈക്കൊള്ളേണ്ട സ്ഥാപനമാണ് നമ്മൾ അതിനാൽ ഇപ്പോൾ നമുക്ക് ആദ്യപടി നോക്കാം പദ്ധതിയുമായി ബന്ധപ്പെട്ട ചെലവും നേട്ടങ്ങളും തിരിച്ചറിയുക എന്നതാണ് ആദ്യപടി എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയുന്ന ചില ചിലവും ആനുകൂല്യങ്ങളും നിങ്ങൾക്കറിയാം ഉദാഹരണത്തിന് കമ്പ്യൂട്ടർ വാങ്ങുന്നതും നേരിട്ടുള്ള സ്റ്റാഫ് അംഗങ്ങൾക്ക് പണമടയ്ക്കുന്നതും പോലുള്ള ഡയറക്റ്റ് കോസ്റ്റ് അവർക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും ഈ ഡയറക്റ്റ് ബെനെഫിറ്റ് മിക്കപ്പോഴും അവ ഒന്നിനെ ഡയറക്റ്റ് കോസ്റുമായി ബന്ധപ്പെടുത്തുന്നു ഡയറക്റ്റ് ബെനെഫിറ്റ് ഡയറക്റ്റ് കോസ്റ്റുമായി നേരിട്ട് ബന്ധപ്പെടും പ്രത്യേകിച്ചും ചോദ്യങ്ങളിലെ പ്രവർത്തനങ്ങളിലെ ചെലവ് കുറയ്ക്കുന്നതിലൂടെ ലഭിക്കുന്ന സമ്പാദ്യം അവ ആനുകൂല്യങ്ങളുമായി മാപ്പ് ചെയ്യാനാകും ചില ഡയറക്റ്റ് കോസ്റ്റും ബെനെഫിട്ടും കൃത്യമായി നിർവചിക്കപ്പെടില്ല കാരണം അവ കണക്കാക്കിയ ചിലവുകളെ പ്രതിനിധീകരിക്കുന്നതിനാൽ അവ വ്യക്തമായി തിരിച്ചറിയാൻ കഴിയില്ല അവ കണക്കാക്കിയ ചിലവുകളുടെ യഥാർത്ഥ വിലയല്ല അല്ലെങ്കിൽ ചില അനിശ്ചിതത്വങ്ങളുള്ള കണക്കാക്കിയ ആനുകൂല്യങ്ങളാണ് അതിനാൽ അവ വ്യക്തമായി നിർവചിക്കാൻ കഴിയില്ല അവ വ്യക്തമായി അളക്കാൻ കഴിയില്ല അവ ബാഡ് ടെബ്റ്റ് മുതലായവ നീക്കിവച്ചിരിക്കുന്ന ചെലവ് പോലെയാണ് അതിനാൽ ഈ തരത്തിലുള്ള ഡയറക്റ്റ് കോസ്റ്റ് അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ചില ആനുകൂല്യങ്ങൾ അവയ്ക്ക് കൃത്യമായി നിർവചിക്കാൻ കഴിയാത്തവയായിരിക്കാൻ കഴിയില്ല അവ വ്യക്തമായി നിർവചിക്കാൻ കഴിയില്ല അവ വ്യക്തമായി തിരിച്ചറിയാൻ കഴിയില്ല അവ വ്യക്തമായി അളക്കാൻ കഴിയില്ല എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയാത്ത ചിലവ് അല്ലെങ്കിൽ ആനുകൂല്യങ്ങളുടെ ഒരു വിഭാഗം ഓപ്പര്ച്ചുനിടി കോസ്റ്റ് ആണ് ഓപ്പര്ച്ചുനിടി കോസ്റ്റ് കൂടാതെ ഓപ്പര്ച്ചുനിടി ബെനെഫിറ്റ് എന്നതിന്റെ ഉദാഹരണമാണ് നമ്മൽ ഇവിടെ എടുത്തത് അതിനാൽ ഈ ഓപ്പര്ച്ചുനിടി കോസ്റ്റ് അല്ലെങ്കിൽ എന്താണ് ഓപ്പര്ച്ചുനിടി കോസ്റ്റ് അഥവാ ബെനെഫിറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഒന്നിനുപുറകെ മറ്റൊന്ന് തിരഞ്ഞെടുത്ത് കടന്നുപോകുന്ന വിലയോ ആനുകൂല്യങ്ങളോ ആണ് ഓപ്പര്ച്ചുനിടി കോസ്റ്റ് അല്ലെങ്കിൽ ബെനെഫിറ്റ് നിങ്ങൾക്ക് ഇതിനുപകരം മറ്റൊന്ന് എടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും മെച്ചപ്പെട്ട നേട്ടം ലഭിച്ചിരിക്കാം എങ്ങനെയെങ്കിലും നിങ്ങൾ അത് മറന്നുവെന്ന് അവഗണിക്കാം അതിനാൽ ഇതെല്ലം എന്താണ് മറ്റൊന്നിനെ തിരഞ്ഞെടുക്കുന്നതിലൂടെ ഈ തരത്തിലുള്ള വിലയോ ആനുകൂല്യങ്ങളോ വിട്ടുകളയാം അതിനാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിലയോ ആനുകൂല്യമോ ഓപ്പര്ച്ചുനിടി കോസ്റ്റ് എന്നറിയപ്പെടുന്നു ഈ ഓപ്പര്ച്ചുനിടി കോസ്റ്റ് അല്ലെങ്കിൽ ഓപ്പര്ച്ചുനിടി ബെനെഫിറ്റ് തിരിച്ചറിയാൻ വളരെ പ്രയാസമാണ് ഇനി എന്താണ് വ്യത്യസ്ത ഘട്ടങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഞാൻ ഇതിനകം നിങ്ങളോട് പറഞ്ഞതുപോലെ ആദ്യപടിയാണ് വിലയും ആനുകൂല്യങ്ങളും തിരിച്ചറിയുക തുടർന്ന് അടുത്ത ഘട്ടം വിവിധ വിലകളും ആനുകൂല്യങ്ങളും തരംതിരിക്കുക എന്നതാണ് അതിനാൽ വിവിധ ചെലവുകളുടെയും ആനുകൂല്യങ്ങളുടെയും വിഭാഗങ്ങൾ എന്തൊക്കെയാണ് വിലയോ ആനുകൂല്യങ്ങളോ അവ ടാൻജിബിൽ അല്ലെങ്കിൽ ഇൻടാൻജിബിലോ ആകാം അവ ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആകാം അവ ഫിക്സെഡ് അല്ലെങ്കിൽ വേരിയബിൾ ആകാം അതിനാൽ വ്യത്യസ്ത ചെലവുകളുടെയും ആനുകൂല്യങ്ങളുടെയും പ്രധാന വിഭാഗങ്ങൾ ഇവയാണ് അവ ഓരോന്നായി ചർച്ചചെയ്യാം അതിനാൽ ആദ്യത്തേത് ടാൻജിബ്ബിൽ കോസ്റ്റ് ടാൻജിബ്ബിലിട്ടി എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത് ടാൻജിബ്ബിലിട്ടി എന്നത് വിലയോ ആനുകൂല്യങ്ങളോ അളക്കാൻ എളുപ്പമാണെന്ന് സൂചിപ്പിക്കുന്നു ചെലവും ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് എത്ര എളുപ്പത്തിൽ അളക്കാൻ കഴിയും അതിനാൽ ടാൻജിബ്ബിൽ അർത്ഥമാക്കുന്നത് വിലയോ ആനുകൂല്യങ്ങളോ അളക്കാൻ എളുപ്പമുള്ളതാണ് എന്നാണ് ഒരു നിർദ്ദിഷ്ട ഇനത്തിനോ പ്രവർത്തനത്തിനോ ഉള്ള പണത്തിന്റെ വിഹിതം ഒരു വ്യക്തമായ വിലയായി പരാമർശിക്കുന്നു അതിനാൽ ടാൻജിബ്ബിൽ കോസ്റ്റ് ഒരു നിർദ്ദിഷ്ട ഇനത്തിനായോ ഒരു നിർദ്ദിഷ്ട പ്രവർത്തനത്തിനായോ ഉള്ള പണത്തിന്റെ വിഹിതമായി നിർവചിക്കപ്പെടുന്നു ഒരു നിർദ്ദിഷ്ട ഇനത്തിനോ പ്രവർത്തനത്തിനോ ഉള്ള പണത്തിന്റെ ഈ വിഹിതം വ്യക്തമായ ചെലവ് എന്ന് വിളിക്കുന്നു വ്യക്തമായ ചിലവിന്റെ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ് യന്ത്രസാമഗ്രികളുടെ വാങ്ങൽ ഹാർഡ്വെയർ അല്ലെങ്കിൽ വ്യത്യസ്ത സോഫ്റ്റ്വെയർ പോലുള്ള ഉപകരണങ്ങൾ വാങ്ങുന്നത് ഒരു പരിശീലനത്തിന് ആവശ്യമായ ചെലവ് ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നതിന് ആവശ്യമായ ചെലവ് ഇതെല്ലം ടാൻജിബ്ബിൽ കോസ്റ്റിന്റെ ഉദാഹരണങ്ങളാണ് അതുപോലെ ഇൻട്ടാജിബിൽ കോസ്റ്റ് എന്താണ് അർത്ഥമാക്കുന്നത് ടാൻജിബ്ബിൽ കോസ്റ്റ് എന്നാൽ എളുപ്പത്തിൽ അളക്കാൻ കഴിയുന്ന ചെലവ് ഇൻട്ടാജിബിൽ കോസ്റ്റ് എന്നാൽ നിലനിൽക്കുന്നതായി അറിയപ്പെടുന്ന ചെലവ് എന്നാൽ എളുപ്പത്തിൽ കണക്കാക്കാൻ കഴിയില്ല ഈ ചെലവ് നിങ്ങൾക്ക് എളുപ്പത്തിൽ അളക്കാൻ കഴിയില്ല ചില ഉദാഹരണങ്ങൾ ഒരു പുതിയ സിസ്റ്റം മൂലമുണ്ടായ ജീവനക്കാരുടെ മനോവീര്യ പ്രശ്നങ്ങൾ നമുക്ക് നോക്കാം അതിനാൽ മുമ്പുണ്ടായിരുന്ന ചില സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നുവെന്ന് കരുതുക ഇപ്പോൾ നിങ്ങൾ ഒരു പുതിയ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തു നിങ്ങൾ ഒരു പുതിയ സംവിധാനം പിന്തുടർന്നു അപ്പോൾ ജീവനക്കാർക്ക് എന്ത് തരത്തിലുള്ള മനോവീര്യം വരും നിങ്ങൾക്ക് എളുപ്പത്തിൽ അളക്കാൻ കഴിയാത്ത ചിലവ് ഇത് വഹിക്കും അതുകൊണ്ടാണ് ഇവ ഇൻട്ടാജിബിൽ കോസ്റ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഉപഭോക്താക്കളിൽ കമ്പനി ഇമേജ് വിപണിയിൽ താഴ്ത്തിയാൽ അത് ചില ഉപഭോക്താക്കളെ അളക്കാൻ പ്രയാസമുണ്ടാക്കും അതിനാൽ ഇവ ഇൻട്ടാജിബിൽ കോസറിന്റെ ചില ഉദാഹരണങ്ങളാണ് ചില സന്ദർഭങ്ങളിൽ ഈ ഇൻട്ടാജിബിൽ കോസ്റ്റ് തിരിച്ചറിയാൻ എളുപ്പമാണ് പക്ഷേ നിങ്ങൾക്ക് അവ തിരിച്ചറിയാൻ കഴിയും എന്നാൽ നിങ്ങൾക്ക് അവ അളക്കാൻ കഴിയില്ല ഉദാഹരണത്തിന് ഒരു ഓൺലൈൻ സിസ്റ്റത്തിന്റെ തകർച്ചയുടെ ചെലവ് റെയിൽവേ റിസർവേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ബാങ്കിംഗ് സിസ്റ്റം മുതലായ ഒരു ഓൺലൈൻ സിസ്റ്റം പ്രവർത്തിക്കുന്നു പക്ഷേ പെട്ടെന്ന് അവ ഒരു തകർച്ചയായി മാറുന്നു അതിനാൽ ചില ചിലവുകൾ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതുമൂലം ഉപഭോക്താക്കളെ മറ്റ് സേവന ദാതാക്കളിലേക്ക് വഴിതിരിച്ചുവിടാം അതിനാൽ ഒരു ഓൺലൈൻ സിസ്റ്റത്തിന്റെ തകർച്ചയുടെ ചിലവ് ഇവിടെ ബാന്കിങ്ങിന്റെ ഉദാഹരണം എടുക്കാം പല ബാങ്കുകളും ഉണ്ട്ആളുകൾ നിങ്ങളുടെ ബാങ്കിനായി മാത്രം പോകുന്നത് എന്തുകൊണ്ടാണ് അതിനാൽ അവർ മറ്റ് ബാങ്കിലേക്ക് കുടിയേറാം അതിനാൽ നിങ്ങൾക്ക് കുറച്ച് തുക നഷ്ടപ്പെടും ഇതിന് കുറച്ച് ചിലവ് വരും ബാങ്കിംഗ് സമയങ്ങളിൽ ഒരു ഓൺലൈൻ സിസ്റ്റം തകരാറിലാകുന്നതിനുള്ള ചെലവ് ബാങ്കിന്റെ നിക്ഷേപം നഷ്ടപ്പെടുന്നതിനും മാനവ വിഭവശേഷി പാഴാക്കുന്നതിനും ഇടയാക്കും എന്നാൽ നിങ്ങൾക്ക് എത്ര തുക നഷ്ടപ്പെടും എത്ര പണം നഷ്ടപ്പെടും അല്ലെങ്കിൽ എത്രയാണ് എന്ന് കണക്കാക്കാൻ പ്രയാസമാണ് പക്ഷേ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന മാനവ വിഭവശേഷി അളക്കാൻ വളരെ പ്രയാസമാണ് അതിനാൽ ഇത് ഇൻട്ടാജിബിൽ കേസാണ് ചില സാഹചര്യങ്ങളിൽ ഈ ചെലവ് തിരിച്ചറിയാൻ പോലും ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ ഒരു ഓൺലൈൻ സിസ്റ്റത്തിന്റെ തകർച്ചയുടെ ചിലവ് എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും പക്ഷേ ബുദ്ധിമുട്ടുള്ള അളവാണ് ഈ ഉദാഹരണം എടുത്തതെന്ന് ഇവിടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാത്തവിധം ചില കേസുകളുണ്ട് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത അളവുകളെക്കുറിച്ച് അതിനാൽ നിങ്ങൾക്ക് അവ അളക്കാൻ കഴിയില്ല മുമ്പ് ഓൺലൈൻ സിസ്റ്റം കാരണം ഉപഭോക്തൃ സംതൃപ്തി മെച്ചപ്പെടുന്നതായി കാണുന്നു വിശകലന സിസ്റ്റത്തിൽ നിങ്ങൾ നടപ്പിലാക്കിയ ഇൻസ്റ്റാൾ ചെയ്തതിനെ പിന്തുടർന്നത് ഇപ്പോൾ നിങ്ങൾക്കുണ്ട് അതിനാൽ ബുദ്ധിമുട്ടുള്ള വിശകലനം ഉപയോക്താക്കൾ തൃപ്തിപ്പെടുത്തും പക്ഷേ അത് എങ്ങനെ കണക്കാക്കാമെന്ന് അവർ എത്രമാത്രം തൃപ്തിപ്പെടുത്തി അവ കണക്കാക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അവരെ അളക്കുന്നതിന് ഇത് വളരെ ബുദ്ധിമുട്ടാണ് അതിനാൽ ഇവയാണ് ഇൻട്ടാജിബിൽ കോസ്റ്റ് അതുപോലെ തന്നെ നമ്മൾ ടാൻജിബിൽ കോസ്റ്റും ഇൻടാൻജിബിൽ കോസ്റ്റും കണ്ടു സമാനമായി ആനുകൂല്യങ്ങളുടെ വിഭാഗത്തിൽ ടാൻജിബിൽ ബെനെഫിട്ടും ഇൻട്ടാജിബിൽ ബെനെഫിട്ടും ഉണ്ട് അളക്കാൻ കഴിയുന്ന ആനുകൂല്യങ്ങൾ അതിനാൽ ടാൻജിബിൽ ബെനെഫിറ്റ് അർത്ഥമാക്കുന്നത് ഇവ എളുപ്പത്തിൽ അളക്കാൻ കഴിയുന്ന ആനുകൂല്യങ്ങളാണ് ഉദാഹരണത്തിന് കുറച്ച് മണിക്കൂറിനുള്ളിൽ ജോലി പൂർത്തിയാക്കുന്നതിലൂടെ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ മുമ്പ് നിങ്ങൾ ജോലി പൂർത്തിയാക്കിയ മണിക്കൂറായിരുന്നു 10 പുതിയ ജോലികൾ സ്വയമേവ ഒരു പുതിയ ഓട്ടോമേഷൻ സംവിധാനം വികസിപ്പിച്ചെടുക്കുന്നതിനാലാണ് നിങ്ങൾ 10 ജോലികൾ പറയുന്നത് അതേ 10 ജോലികൾ അരമണിക്കൂർ കൊണ്ട് നിങ്ങൾ പൂർത്തിയാക്കുന്നു അതിനാൽ നിങ്ങൾക്ക് തീർച്ചയായും ചില ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു എന്നാൽ ഇത് തീർച്ചയായും എത്രത്തോളം പ്രയോജനപ്പെടുത്തുന്നു നിങ്ങൾക്ക് മുമ്പ് ഒരു മണിക്കൂറിലൊന്ന് ആ 10 ജോലികൾ ചെയ്തുവെന്ന് അളക്കാൻ കഴിയും ഇപ്പോൾ നിങ്ങൾ 10 മണിക്കൂറുകൾ അയയ്ക്കുക നിങ്ങൾ അരമണിക്കൂറിനുള്ളിൽ പൂർത്തിയാക്കുന്നു അല്ലെങ്കിൽ ഒരു മണിക്കൂർ നിങ്ങൾ 20 ജോലികൾ പൂർത്തിയാക്കുന്നു അതിനാൽ ഇത് എളുപ്പത്തിൽ കണക്കാക്കാം ഇത് വ്യക്തമായ നേട്ടങ്ങളുടെ ഒരു ഉദാഹരണമാണ് സമാനമായി മുമ്പ് പിശകുകളില്ലാത്ത റിപ്പോർട്ടുകൾ നിർമ്മിക്കുന്നത് സ്വമേധയാൽ ആണ് അതിനാൽ ഓരോ പേജിലും 10 20 അല്ലെങ്കിൽ അതുപോലെയുള്ള നിരവധി പിശകുകൾ ഉണ്ട് എന്നാൽ നിങ്ങളുടെ റിപ്പോർട്ടിൽ യാന്ത്രികമാക്കിയ ശേഷം ഏകദേശം ഒന്നോ രണ്ടോ പിശകുകൾ വരുന്നു നിങ്ങളുടെ സിസ്റ്റം ഓൺലൈൻ അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് ആക്കുന്നതിനാൽ ഈ റിപ്പോർട്ടുകളിൽ ഈ പിശകുകളുടെ എണ്ണം ഉണ്ട് അതിനാൽ ഇത് അളക്കാവുന്ന നേട്ടമാണ് തീർച്ചയായും പിശകുകളില്ലാതെ റിപ്പോർട്ടുകൾ നിർമ്മിക്കുന്നത് അളക്കാനും കണക്കാക്കാനും കഴിയും നിങ്ങൾക്ക് പിശകുകളുടെ എണ്ണവും കണക്കാക്കാം അതിനാൽ ഇത് ടാൻജിബിൽ ബെനെഫിട്ടിന്റെ ഒരു ഉദാഹരണമാണ് അതുപോലെ ഇൻടാൻജിബിൽ ബെനെഫിറ്റ് എന്നാൽ നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് എളുപ്പത്തിൽ അളക്കാൻ കഴിയാത്ത ആനുകൂല്യങ്ങൾ ഇൻടാൻജിബിൽ ബെനെഫിറ്റ് എളുപ്പത്തിൽ കണക്കാക്കാൻ കഴിയില്ല കൂടുതൽ സംതൃപ്തരായ ഉപഭോക്താക്കളെ നമുക്ക് ഉദാഹരണമായി എടുക്കാം നിങ്ങൾക്ക് കൂടുതൽ സംതൃപ്തരായ ഉപഭോക്താക്കളുണ്ടെങ്കിലോ നിങ്ങളുടെ കമ്പനിയ്ക്ക് നിങ്ങളുടെ കോർപ്പറേറ്റിന് മെച്ചപ്പെട്ട ഇമേജ് ഉണ്ടെങ്കിലോ തീർച്ചയായും നിങ്ങളുടെ ആനുകൂല്യം കൂടുതലായിരിക്കും പക്ഷേ അവരെ അളക്കാൻ പ്രയാസമാണ് എന്തുകൊണ്ടാണ് വ്യത്യസ്ത തരം വിലകളും ആനുകൂല്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നത് കാരണം എല്ലാത്തരം ചെലവുകളും ടാൻജിബിൽ ഇൻടാൻജിബിൽ കോസ്റ്റും ബെനെഫിട്ടും ടെറെക്ടോ ഇൻടെറെക്ടോ ആയ കോസ്റ്റും ബെനെഫിട്ടും എന്നിവയെല്ലാം മൂല്യനിർണ്ണയ പ്രക്രിയയിൽ പരിഗണിക്കേണ്ടതാണ് കോസ്റ്റ് ബെനിഫിറ്റ് വിശകലനത്തിൽ ടാൻജിബിലും ഇൻടാൻജിബിൽ കോസ്റ്റും ബെനെഫിട്ടും ഉൾപ്പെടെയുള്ള വിവിധ തരത്തിലുള്ള വിലയും ആനുകൂല്യങ്ങളും നേരിട്ടുള്ള പരോക്ഷ ചിലവും ആനുകൂല്യങ്ങളും മൂല്യനിർണ്ണയ പ്രക്രിയയിൽ പരിഗണിക്കണം നമ്മൾ ആയിരിക്കരുത് എന്ന് അവഗണിച്ചുകൊണ്ട് മാനേജ്മെന്റ് പലപ്പോഴും അദൃശ്യമായ വിലയോ ആനുകൂല്യങ്ങളോ യുക്തിരഹിതമായി കൈകാര്യം ചെയ്യുന്നതായി നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് മിക്കപ്പോഴും അവ അളക്കാൻ കഴിയാത്തതിനാൽ അവർക്ക് തിരിച്ചറിയാൻ കഴിയില്ല അല്ലെങ്കിൽ അവ കണക്കാക്കാൻ കഴിയില്ല അതിനാൽ അവർ അവഗണിക്കുന്ന മാനേജ്മെന്റിന് വ്യക്തമായ ആനുകൂല്യങ്ങളും ചെലവും എന്താണെന്ന് കണക്കാക്കാൻ കഴിയും അതിനാൽ ആ രീതിയിൽ സാമ്പത്തിക വിലയിരുത്തൽ കോസ്റ്റ് ബെനെഫിറ്റ് അനാല്യ്സിസ് ശരിയായി നടത്താൻ കഴിയില്ല മാനേജ്മെൻറ് തുല്യമായി സി ബി വിശകലന രീതിയിൽ സമാനമായ എല്ലാ വിലയും ആനുകൂല്യങ്ങളും പരിഗണിക്കേണ്ടതുണ്ട് അടുത്ത വിഭാഗം ഡയറക്റ്റ് കോസ്റ്റ് ആണ് ഒരു പ്രോജക്റ്റിൽ ഒരു ഡോളർ കണക്കുമായി നേരിട്ട് ബന്ധപ്പെടാൻ കഴിയുന്നവയാണ് ഇവ അതായത് രൂപയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഏത് ഡോളറിന്റെ തരത്തിലോ നമുക്ക് പണത്തിന്റെ അടിസ്ഥാനത്തിൽ ചെലവ് പ്രകടിപ്പിക്കാൻ കഴിയും പണത്തിന്റെ ഇനങ്ങൾ കണക്കാക്കുന്നത് എളുപ്പമാണ് അതിനാൽ പണച്ചെലവുകളിൽ ഈ ചെലവ് എളുപ്പത്തിൽ കണക്കാക്കാം നമുക്ക് ഒരു ചെറിയ ഉദാഹരണം എടുക്കാം നിങ്ങൾക്ക് ബോക്സ് ഡിസ്കറ്റുകൾ വാങ്ങാനോ കുറച്ചു കമ്പ്യൂട്ടറുകൾ വാങ്ങാനോ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക ഒരു കൂട്ടം സോഫ്റ്റ്വെയറുകൾ വാങ്ങുക അതിനാൽ ഇവിടെ നേരിട്ടുള്ള ചെലവിന്റെ ഉദാഹരണങ്ങൾ എന്തുകൊണ്ട് കാരണം ഇവിടെ ഈ സാഹചര്യത്തിൽ ഡിസ്കറ്റുകൾ വാങ്ങുന്നത് മുപ്പത്തിയഞ്ച് ഡോളറോ അതിൽ കൂടുതലോ എടുത്തതാണെന്ന് പറയുന്നു ഇവിടെ നിങ്ങൾ ചെലവഴിച്ച ഡോളറുമായി ഡിസ്കറ്റുകളെ ബന്ധിപ്പിക്കാൻ കഴിയും ഈ ചെലവിന് എന്ത് മൂല്യങ്ങളാണുള്ളതെന്ന് നിങ്ങൾക്ക് ധനസമ്പാദനം നൽകാനാകുമെന്നതിനാൽ ഇവയെ ഡയറക്റ്റ്കോസ്റ്റ് എന്നും വികസന ചെലവ് ലബോറട്ടറി തുടങ്ങിയവ സ്ഥാപിക്കൽ സജ്ജീകരണ ചെലവ് പ്രവർത്തന ചെലവ് എന്നിവ പോലുള്ള ഡയറക്റ്റ് കോസ്റ്റിന്റെ മറ്റ് ഉദാഹരണങ്ങൾ എന്നും അറിയപ്പെടുന്നു ഇവ ഡയറക്റ്റ് കോസ്റ്റിന്റെ ചില ഉദാഹരണങ്ങളാണ് കാരണം അവ എളുപ്പത്തിൽ അളക്കാൻ കഴിയും അവ നേരിട്ട് കണക്കാക്കാം ഡയറക്റ്റ് ബെനെഫിട്ടിനെ കുറിച്ച് എന്താണ് പറയുന്നത് തന്നിരിക്കുന്ന പ്രോജക്റ്റിന് പ്രത്യേകമായി ആട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ആനുകൂല്യങ്ങൾ ഇവയാണ് അതിനാലാണ് ഇവയെ ഡയറക്റ്റ് ബെനെഫിറ്റ് എന്ന് വിളിക്കുന്നത് നമുക്ക് ഒരു ചെറിയ ഉദാഹരണം എടുക്കാം മുമ്പ് നിങ്ങളുടെ സിസ്റ്റം സ്വമേധയാ പ്രവർത്തിക്കുന്നുണ്ടെന്ന് കരുതുക ഇപ്പോൾ നിങ്ങൾ ഒരു പുതിയ ഓൺലൈൻ സിസ്റ്റം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് കൂടാതെ നിങ്ങൾ എത്ര ഇടപാടുകൾ സ്വമേധയാ പൂർത്തിയാക്കുന്നതിനാൽ പ്രതിദിനം 25 ശതമാനം കൂടുതൽ ഇടപാട് കൈകാര്യം ചെയ്യാൻ കഴിയും ഇപ്പോൾ ഇത് ഓൺലൈനാക്കിയതിനാൽ പ്രതിദിനം 25 ശതമാനം കൂടുതൽ ഇടപാടുകൾ പൂർത്തിയായി അതിനാൽ ഇവിടെ നേരിട്ട് നമുക്ക് ആനുകൂല്യവും ആനുകൂല്യങ്ങളും ലഭിക്കുന്നു എന്തുകൊണ്ടാണ് ഇവ ആട്രിബ്യൂട്ട് ചെയ്യുന്നത് കാരണം പുതിയ ഓൺലൈൻ സിസ്റ്റം നടപ്പിലാക്കുന്നതിനാൽ ഇവ ഉദാഹരണങ്ങളാണ് അതിനാൽ ഡയറക്റ്റ് ബെനെഫിട്ടിന്റെ ഉദാഹരണമാണിത് ഇപ്പോൾ ഇതിനെ ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് വിളിക്കാം ഇവയാണ് ചിലവ് അല്ലെങ്കിൽ തന്നിരിക്കുന്ന സിസ്റ്റവുമായോ പ്രവർത്തനവുമായോ നേരിട്ട് ബന്ധമില്ലാത്ത പ്രവർത്തനങ്ങളുടെ ഫലങ്ങളാണ് ഈ ചെലവ് അതിനാൽ ഇത്തരത്തിലുള്ള ചിലവില്ലാത്ത ചിലവ് ഒരു നിർദ്ദിഷ്ട സിസ്റ്റവുമായോ തന്നിരിക്കുന്ന പ്രവർത്തനവുമായോ നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ല സാധാരണയായി അവയെ പലപ്പോഴും ഓവർഹെഡ് അല്ലെങ്കിൽ ഓവർഹെഡ് കോസ്റ്റ് എന്ന് വിളിക്കുന്നു ഉദാഹരണം ഇൻഷുറൻസ് മെയിന്റനൻസ് തുടങ്ങിയവ പോലുള്ളവ ഒരു പ്രത്യേക സിസ്റ്റത്തിനോ ഒരു പ്രത്യേക പ്രവർത്തനത്തിനോ പ്രത്യേകമല്ല ഇവ മൊത്തത്തിലുള്ള ഓർഗനൈസേഷന്റെ പ്രവർത്തനത്തിന് ആവശ്യമാണ് അതിനാൽ സമാനമായി കമ്പ്യൂട്ടർ സെന്ററിനെ സംഘടനയുടെ ചൂടിൽ നിന്നും തീയിൽ നിന്നും സംരക്ഷിക്കുക എയർ കണ്ടീഷനിംഗ് സൌകര്യം നൽകുക തുടങ്ങിയവ പ്രത്യേകമല്ല ഇവ ഒരു നിർദ്ദിഷ്ട സിസ്റ്റവുമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ തന്നിരിക്കുന്ന പ്രോജക്റ്റ് അല്ലെങ്കിൽ നൽകിയ പ്രവർത്തനവുമായി മൊത്തത്തിലുള്ള പ്രവർത്തനത്തിന് ഇത് ആവശ്യമാണ് ഓർഗനൈസേഷന്റെ ഇവ ഇൻഡയറക്റ്റ് കോസ്റ്റിന്റെ ഉദാഹരണങ്ങളാണ് എന്നാൽ ഇവയിൽ ഓരോന്നിന്റെയും അനുപാതം നിർണ്ണയിക്കാൻ വളരെ പ്രയാസമാണ് അവ ഒരു നിർദ്ദിഷ്ട പ്രവർത്തനത്തിന് കാരണമാകുന്നു ഇനി ഇൻഡയറക്റ്റ് ബെനെഫിറ്റസ് എന്താണ് മറ്റൊരു പ്രവർത്തനത്തിന്റെയോ സിസ്റ്റത്തിന്റെയോ ഉപോൽപ്പന്നമായി തിരിച്ചറിഞ്ഞ ആനുകൂല്യങ്ങൾ ഇവ നേരിട്ട് നേട്ടങ്ങളല്ല ഒരു ചെറിയ ഉദാഹരണം എടുക്കാം ഒരു ഉരുക്ക് നിലയത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണെന്നു നോക്കൂ ഉരുക്ക് ഉൽപാദിപ്പിക്കുന്നു എന്നാൽ ഈ ഉരുക്കുകൾ ഉൽപാദിപ്പിക്കുമ്പോഴേക്കും ചില സന്ദർഭങ്ങളിൽ വളങ്ങൾ ഉൽപാദിപ്പിക്കപ്പെടുന്നു അതിനാൽ രാസവളങ്ങൾ വിൽക്കുന്നതിലൂടെ ലഭിക്കുന്ന നേട്ടങ്ങൾ ഇത് ഒരു ഇൻഡയറക്റ്റ് ബെനെഫിറ്റ് ആയി നമുക്ക് കണക്കാക്കാം കടയുടമകൾ വ്യത്യസ്ത എണ്ണകൾ ആണ് വിൽക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം എന്നാൽ ടിൻ ബോക്സുകൾ അടങ്ങിയ എണ്ണകൾ വിറ്റ ശേഷം അവർ വിപണിയിൽ ഈ ടിൻ ബോക്സുകൾ വിൽക്കുന്നു അതിനാൽ ടിൻ ബോക്സുകൾ പോലെ ശൂന്യമായ എണ്ണ പാത്രങ്ങൾ വിൽക്കുന്നതിലൂടെ അവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഇത് ഏത് പേപ്പർ കാർട്ടൂണുകൾ മുതലായവ പരോക്ഷമാണ് അവ ഇൻഡയറക്റ്റ് ബെനെഫിറ്റ് ആയി കണക്കാക്കാം ഫിക്സഡ് കോസ്റ്റ് വേഴ്സസ് വേരിയബിൾ കോസ്റ്റ് ആയി അവസാന വിഭാഗത്തിലേക്ക് വരാം ഒരു സിസ്റ്റം എത്ര നന്നായി ഉപയോഗിച്ചാലും ചിലവ് സ്ഥിരമായിരിക്കും അതിനാൽ നിങ്ങൾ ഈ സിസ്റ്റം പതിവായി ഉപയോഗിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മിതമായി ഉപയോഗിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഉപയോഗിക്കാറില്ല ചില ചിലവുകൾ സ്ഥിരമായിരിക്കും അവയെ ഫിക്സഡ് കോസ്റ്റ് എന്ന് വിളിക്കുന്നു അതിനാൽ അവ ഒരുതവണ മാത്രമേ കണ്ടുമുട്ടുന്നുള്ളൂ അവ വീണ്ടും വീണ്ടും ആവർത്തിക്കില്ല ഉദാഹരണങ്ങൾ ഹാർഡ്വെയ്ന്റെ സ്ട്രൈറ്റലിനെ ഡിപ്രീസിയേഷൻ ഒഴിവാക്കിയ ജീവനക്കാരുടെ ശമ്പളം ഇൻഷുറൻസ് എന്നിവ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒറ്റത്തവണ ചെലവ് ഇവയെ ഫിക്സഡ് കോസ്റ്റ് എന്ന് വിളിക്കുന്നു അതുപോലെ വേരിയബിൾ കോസ്റ്റ് ഈ ചെലവുകൾ ഫിക്സഡ് കോസ്ടിനു വിപരീതമായി സ്ഥിരമായി ഈടാക്കുന്നു എന്നാൽ അവ നേരിട്ട് മാത്രം സംഭവിക്കുന്നു അതേസമയം അവ പതിവായി ചെലവഴിക്കുന്ന വേരിയബിൾ ചെലവ് പ്രതിവാര പ്രതിമാസമോ വാർഷികമോ ആകാം അവ സാധാരണയായി വർക്ക് വോളിയം ആയി ആനുപാതികമാണ് സിസ്റ്റം ഒരു പ്രവർത്തനത്തിലായിരിക്കുന്നിടത്തോളം തുടരും സാധാരണയായി അവ ജോലിയുടെ അളവിന് ആനുപാതികമാണ് കൂടാതെ സിസ്റ്റം ഒരു പ്രവർത്തനത്തിലായിരിക്കുന്നിടത്തോളം കാലം അവ തുടരും കമ്പ്യൂട്ടർ ഫോമുകളുടെ വില നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന കമ്പ്യൂട്ടർ പ്രിന്റഔട്ടുകൾ പ്രോസസ്സിംഗ് ചിലവിനു അനുപാതത്തിൽ നിന്ന് വ്യത്യാസം ഉള്ളത് എന്നിവ ചില ഉദാഹരണങ്ങൾ ആയി എടുക്കാം അതിനാൽ നിങ്ങൾക്ക് വലിയ അളവിലുള്ള ജോലി ചെയ്യണമെങ്കിൽ വലിയ അളവിലുള്ള പ്രവർത്തനങ്ങൾ പ്രോസസ്സ് ചെയ്യേണ്ടതുണ്ട് വ്യക്തമായും നിങ്ങൾ കൂടുതൽ കമ്പ്യൂട്ടർ പ്രിന്റഔട്ടുകൾ പ്രിന്റു ചെയ്യേണ്ടതുണ്ട് കൂടുതൽ കമ്പ്യൂട്ടർ ഫോമുകൾ ആവശ്യമാണ് അതുപോലെ തന്നെ ഇത് കുറഞ്ഞ അളവിലുള്ള പ്രോസസ്സിംഗ് നടത്തേണ്ടതുണ്ട് കുറച്ച് കമ്പ്യൂട്ടർ ഫോമുകൾ ആവശ്യമാണ് അതുപോലെ തന്നെ റിപ്പോർട്ടിന്റെ ദൈർഘ്യം കൂടുതൽ പ്രവർത്തനങ്ങൾ മാത്രമേ നടത്തുകയുള്ളൂ അങ്ങനെ എങ്കിൽ റിപ്പോർട്ടുകളുടെ ദൈർഘ്യ൦ കൂടുതൽ ആയിരിക്കും കുറവ് പ്രവർത്തനങ്ങളെ ഉള്ളുവെങ്കിൽ ദൈർഘ്യം കുറവായിരിക്കും അതിനാൽ ഈ അപ്ലിക്കേഷനുകളുമായി ബന്ധപ്പെട്ട ചെലവ് ഇവിടെ വ്യക്തമായും നിർവഹിച്ച ജോലിയുടെ അളവ് അനുസരിച്ച് അത് വ്യത്യാസപ്പെടും അതുപോലെ വേരിയബിൾ ബെനെഫിറ്റ് വേഴ്സസ് ഫിക്സ്ഡ് ബെനെഫിട്ടിനെക്കുറിച്ചും നമുക്ക് പറയാം ഈ ആനുകൂല്യങ്ങളും സ്ഥിരമാണ് അവ മാറില്ല ഫിക്സ്ഡ് കോസ്റ്റ് അവ സാധാരണയായി മാറില്ല അതുപോലെ തന്നെ ഫിക്സ്ഡ് ബെനെഫിട്ടും അവ സ്ഥിരമാണ് അവ മാറില്ല പുതിയ കമ്പ്യൂട്ടറിന്റെ ഉപയോഗത്തിന്റെ ഫലമായി ഉദ്യോഗസ്ഥരുടെ എണ്ണം 20 ശതമാനം കുറയുന്നതുമൂലം ആനുകൂല്യങ്ങൾ പോലുള്ള ഫിക്സ്ഡ് ബെനെഫിട്ടും എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയും നിങ്ങൾ നിങ്ങളുടെ സിസ്റ്റം മുമ്പ് ഓടോമയ്റ്റ് ചെയ്യുന്നു ഇപ്പോൾ അത് സ്വമേധയാ പ്രവർത്തിക്കുന്നു ഇപ്പോൾ ഒരു പുതിയ കമ്പ്യൂട്ടർ സിസ്റ്റം നടപ്പിലാക്കുന്നു അതിനാൽ കമ്പ്യൂട്ടർ ഉപയോഗം കാരണം നിങ്ങൾ മുമ്പ് ഉപയോഗിക്കുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണം 20 ശതമാനം കുറയുന്നുവെന്ന് കരുതുക ഇത് കൃത്യമായി ഒരു ഫിക്സ്ഡ് ബെനെഫിറ്റ് ആണ് അതുപോലെ തന്നെ പേഴ്സണൽ സേവിംഗിന്റെ ആനുകൂല്യവും എല്ലാ മാസവും ആവർത്തിച്ചേക്കാം എന്നാൽ പേഴ്സണൽ സേവിംഗിന്റെ പ്രയോജനം എത്ര പേരെ സംരക്ഷിച്ചു ഒരു പേഴ്സണൽ സേവിംഗിന്റെ പ്രയോജനം എല്ലാ മാസവും സംഭവിക്കാം വേരിയബിൾ ബെനെഫിറ്റ് മറുവശത്ത് ഈ ആനുകൂല്യങ്ങൾ അതായത് വേരിയബിൾ ബെനെഫിറ്റ് അവ പതിവായി തിരിച്ചറിയുന്നു അവ മാറുന്നു ഉദാഹരണത്തിന് ഒരു മാനുവൽ സിസ്റ്റവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഉപഭോക്തൃ അറിയിപ്പുകൾ തയ്യാറാക്കുന്നതിന് 20 മിനിറ്റ് ലാഭിക്കുന്ന ഒരു സുരക്ഷിത നിക്ഷേപ ട്രാക്കിംഗ് സംവിധാനം ഉണ്ടെന്ന് കരുതുക ഇത് മാനുവൽ സിസ്റ്റമായിരുന്നപ്പോൾ ഉപഭോക്തൃ അറിയിപ്പുകൾ യാന്ത്രികമാക്കിയതിനുശേഷം തയ്യാറാക്കാൻ 20 മിനിറ്റ് കൂടുതൽ എടുക്കുന്നു കമ്പ്യൂട്ടർവത്കൃതമാക്കിയ ശേഷം തയ്യാറാക്കുന്ന ഉപഭോക്തൃ അറിയിപ്പുകളുടെ 20 മിനിറ്റ് ലാഭിക്കുന്നു അതിനാൽ ഇത് സംരക്ഷിച്ച സമയത്തിന്റെ അളവ് വ്യത്യാസപ്പെടും ഇത് ഹാജരാക്കിയ അറിയിപ്പുകളുടെ എണ്ണവുമായി വ്യത്യാസപ്പെടും എത്ര നോട്ടീസുകൾ ഹാജരാക്കുന്നുവോ അതനുസരിച്ച് ലാഭിച്ച സമയം വ്യത്യാസപ്പെടും അതുകൊണ്ടാണ് ഇത് വേരിയബിൾ ബെനെഫിട്ടിന്റെ ഒരു ഉദാഹരണമായത് ഇപ്പോൾ നമ്മൾ അത് ചുരുക്കത്തിൽ കണ്ടു അതിനാൽ സി ബി വിശകലനം നടത്തുന്നതിനുള്ള വ്യത്യസ്ത ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ചചെയ്തു ഈ ഡയറക്റ്റ് കോസ്റ്റ് ഇൻഡയറക്റ്റ് കോസ്റ്റ് ഡയറക്റ്റ് ബെനെഫിറ്റ് ഇൻഡയറക്റ്റ് ബെനെഫിറ്റ് ഫിക്സെഡ് കോസ്റ്റ് വേരിയബിൾ കോസ്റ്റ് ഫിക്സെഡ് ബെനെഫിറ്റ് വേരിയബിൾ ബെനെഫിറ്റ് എന്നിവയ്ക്കെതിരായ അനുയോജ്യമായ ഉദാഹരണങ്ങൾ ഉപയോഗിച്ച് വ്യത്യസ്ത തരത്തിലുള്ള ചിലവും ആനുകൂല്യങ്ങളും ടാൻജിബിൽ ഇൻടാൻജിബിൽ കോസ്റ്റ് ബെനെഫിറ്റ് നമ്മൾ പഠിച്ചു ആനുകൂല്യങ്ങൾ വേരിയബിൾ ബെനെഫിറ്റ് എന്നിവ അതിനാൽ സി ബി വിശകലനത്തിൽ ഈ ചെലവും ആനുകൂല്യങ്ങളും ശരിയായി പരിഗണിക്കേണ്ടതുണ്ട് അതിനാൽ ഈ വർഗ്ഗീകരണം ആവശ്യമാണ് സി ബി വിശകലനത്തിൽ സാധ്യമായ എല്ലാ തരത്തിലുള്ള ചെലവുകളും നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് കാരണം മാനേജ്മെൻറ് പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ട് കാരണം അവർ ഇൻടാൻജിബിൽ ബെനെഫിട്ടും ഇൻടാൻജിബിൽ കോസ്റ്റും കണക്കിലെടുക്കുന്നില്ലെന്ന് അവർ പരിഗണിക്കുന്നില്ല തിരിച്ചറിയാൻ പ്രയാസമുള്ളത് അളക്കാൻ പ്രയാസമാണ് അതുകൊണ്ടാണ് അവർ ഇത് അവഗണിക്കുന്നത് അതിന്റെ ഫലമായി സി ബി വിശകലനത്തിന്റെ ഫലം ശരിയായി ലഭിക്കില്ല സാമ്പത്തിക വിലയിരുത്തൽ ശരിയായിരിക്കില്ല സി ബി വിശകലനം നടത്തുമ്പോഴോ സാമ്പത്തിക വിലയിരുത്തൽ നടത്തുമ്പോഴോ ഈ ചെലവും ആനുകൂല്യങ്ങളും ശരിയായി പരിഗണിക്കേണ്ടതുണ്ട് അവസാന ക്ലാസും ഈ ക്ലാസും ഈ പുസ്തകങ്ങളിൽ നിന്ന് പ്രധാനമായും ഹ്യൂസ് കോട്ടെറലിന്റെ സീരിയൽ നമ്പർ 1 ൽ നിന്നും ഈ പുസ്തകം നമ്മൾ എടുത്തിട്ടുണ്ട് ആ പുസ്തകം ഇവിടെ പ്രാഥമിക പുസ്തകം എടുക്കും കൂടാതെ വ്യത്യസ്ത വിലയും ആനുകൂല്യങ്ങളും ചെലവ് സംബന്ധിച്ച സാധ്യതാ പഠനവും ബെനിഫിറ്റ് അനാലിസിസ് ഇത് സിസ്റ്റം വിശകലനത്തിലും ഡിസൈൻ ബുക്കിലും ഇ എം അവാദിന്റെ E M Awad വിശദമായി വിശദീകരിച്ചിട്ടുണ്ട് തുടർന്ന് ഇത് സാധ്യതാ പഠനത്തിന്റെ ചില അടിസ്ഥാന ആശയങ്ങളും ഈ കോസ്റ്റ് ബെനിഫിറ്റ് വിശകലനവും ഈ സോഫ്റ്റ്വെയർ പ്രോജക്ട് മാനേജുമെന്റും സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് രാജിബ് മാൾസ് പുസ്തകത്തിന്റെ അടിസ്ഥാനകാര്യങ്ങളിൽ ചില അടിസ്ഥാന ആശയങ്ങൾ നൽകിയിരിക്കുന്നു നിങ്ങൾക്ക് ഈ പുസ്തകങ്ങളിൽ ഈ പരാമർശങ്ങൾ പരാമർശിക്കാം അതിനാൽ കാലാകാലങ്ങളിൽ ഞാൻ വ്യത്യസ്ത മെറ്റീരിയലുകൾ വ്യത്യസ്ത പുസ്തകങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്ത റിസോർസെസ് എന്നിവ ഉപയോഗിക്കും അതെല്ലാം ഞാൻ യഥാസമയം നൽകാം അപ്പോൾ ഇതെല്ലാമാണ് വ്യത്യസ്ത തരത്തിലുള്ള ചെലവുകളും ആനുകൂല്യങ്ങളും അടുത്ത ക്ലാസ്സിൽ കോസ്റ്റ് ബെനെഫിറ്റ് വിശകലനത്തിന്റെ മറ്റ് ഘട്ടങ്ങൾ നമ്മൾ കാണും അതിനാൽ ചെലവ് തിരിച്ചറിയുന്ന മൂന്ന് രണ്ട് ഘട്ടങ്ങൾ ഇന്ന് നമ്മൾ കണ്ടു ഘട്ടം 1 ഉം ഘട്ടം 2 ഉം നിങ്ങളുടെ വർഗ്ഗീകരണം അല്ലെങ്കിൽ ചെലവ് തരംതിരിക്കുക അതിനാൽ കോസ്റ്റ് ബെനിഫിറ്റ് വിശകലനത്തെക്കുറിച്ച് നമ്മൾ കണ്ട ഈ രണ്ട് ഘട്ടങ്ങളും അടുത്ത ഘട്ടമാണ് നമ്മൾ ഉപയോഗിക്കേണ്ട വ്യത്യസ്ത വിലയും ആനുകൂല്യങ്ങളും തിരിച്ചറിയുകയും തരംതിരിക്കുകയും ചെയ്തതിന് ശേഷം ശരിയായ കോസ്റ്റ് ബെനിഫിറ്റ് മൂല്യനിർണ്ണയ രീതി തിരഞ്ഞെടുക്കേണ്ടത് അതായത് അറ്റ ലാഭം ഇപ്പോഴത്തെ മൂല്യം മൊത്തം മൂല്യം തിരിച്ചടവ് കാലയളവ് ആന്തരിക വരുമാന നിരക്ക് എന്നിവ അതിനാൽ ചില രീതികൾ ഉണ്ട് ആ രീതികൾ വെച്ച് എങ്ങനെ തിരഞ്ഞെടുക്കാം എന്തിനെ അടിസ്ഥാനമാക്കി തിരഞ്ഞെടുക്കാം എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം അടുത്ത ക്ലാസ്സിൽ കോസ്റ്റ് ബെനിഫിറ്റ് മൂല്യനിർണ്ണയ സാങ്കേതികത തിരഞ്ഞെടുക്കുന്നത് എങ്ങനെ എന്ന് നോക്കാം നിങ്ങൾക്ക് വളരെ നന്ദി